ഡിസൈനുകൾ എന്താണ് ഡിസൈൻ ആകൃതി കോൺഫിഗറേഷൻ പാറ്റേൺ എന്നിവയുടെ സവിശേഷതകൾ ആണ് ഡിസൈൻ അതായത് ഒരു ഉൽപ്പന്നത്തിലെ വരകളുടെയോ നിറങ്ങളുടെയോ അലങ്കാരം അല്ലെങ്കിൽ ഘടന ഇത് വ്യവസായ നിർമിതമായ വില്കപ്പെടാനുള്ള വസ്തുവിൽ കാഴ്ചകാരൻറെ ശ്രദ്ധ ആകർഷിക്കാനും കാഴ്ചയിലെ ആകർഷണീയതയിൽ മാത്രം ആ ഉത്പന്നത്തെ വിധിക്കാനും കഴിയുന്ന തരത്തിൽ ഒരു വിഷ്വൽ അപ്പീൽ ഉണ്ടാക്കാനായി പ്രയോഗിക്കപ്പെടുന്നു ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനക്ഷമമല്ലാത്ത വശത്തിനാണ് ഡിസൈൻ റൈറ്റ് നൽകുക ഇത് ഉൽപ്പന്നത്തിന്റെ പ്രവർത്തന വശമാണെങ്കിൽ പേറ്റൻറ് നിയമത്തിലെ ആവശ്യകതകൾ നിറവേറ്റുന്ന ഒരു പേറ്റൻറ് അതിനെ പരിരക്ഷിക്കണം പേറ്റന്റും ഡിസൈനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ പേറ്റന്റ് പേ റ്റന്റ് ചെയ്യപ്പെട്ട ഉൽപന്നത്തിന്റെ സാങ്കേതിക ഭാഗങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വശങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയെ പരിരക്ഷിക്കുന്നു എന്നാൽ ഡിസൈൻ ഒരു ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനരഹിതമായ വശങ്ങൾക്ക് ഉള്ളതാണ് അപ്പോൾ ഡിസൈൻ ഒരു ഉൽപ്പന്നത്തെ സൌന്ദര്യാത്മകമാക്കും കാഴ്ചയിൽ ആകർഷകമോ സൌന്ദര്യാത്മകമോ ആക്കും എന്ന്നമ്മൾ മനസിലാക്കുന്നു ആ ആകർഷണീയത കാഴ്ചയ്ക്കപ്പുറം പോകുന്നില്ല കാഴ്ചയ്ക്ക് അപ്പുറം ഒരു ഉൽപ്പന്നം പ്രവർത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ അതിനെ ഒരു ഡിസൈനിൽ പരിരക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ഡിസൈൻ ഒരു ഉൽപനത്തിന്റെ പ്രവർത്തനരഹിതമായ വശങ്ങളെ മാത്രമേ പരിരക്ഷിക്കുകയുള്ളൂ പേറ്റന്റ് ഓഫീസിന്റെ ഡിസൈൻ വിംഗ് ഡിസൈനിന് അംഗീകാരം നൽകുന്നു അതിന്റെ ആസ്ഥാനം കൊൽക്കത്തയിലാണ് ചെന്നൈ മുംബൈ ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ അതിന്റെ ശാഖകളുണ്ട് ഒരു ഡിസൈൻ അനുവദിക്കുമ്പോൾ പേറ്റൻറ് ഓഫീസ് ഡിസൈൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു അതിൽ ഒരു ഡിസൈൻ നമ്പറും ആ ഡിസൈൻ രജിസ്റ്റർ ചെയ്ത തീയതിയും നൽകിയിരിക്കുന്നു ഡിസൈൻ ഒരു ഗ്രാഫിക്കൽ പ്രാധിനിത്യത്തിലും കാണിക്കപ്പെടാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാതൃക എങ്ങനെ കാണപ്പെടുന്നു എന്നതിന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ആപ്ലിക്കേഷനിൽ ഡിസൈനിന്റെ പുതുമ ഉപരിതല അലങ്കാരത്തിലാണോ ആകൃതിയിലാണോ അതോ കോൺഫിഗറേഷനിലാണോ കാണപ്പെടുന്നത് എന്നു വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരിക്കണം അതോടൊപ്പം ഈ രെജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഉല്പന്നത്തിന്റെ പ്രവർത്തനക്ഷമതയുമായി ബന്ധപ്പെട്ട അത് മെക്കാനിക്കലോ പ്രവർത്തന സംവിധാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഉല്പന്നത്തിന്റെ പ്രവർത്തന തത്വവുമായോ ബന്ധപെട്ട് ഒരു അവകാശവാദവും ഉന്നയിക്കില്ലെന്ന് ഒരു ഡിസ്ക്ലെയ്മറും ഉണ്ടായിരിക്കണം അതോടൊപ്പം വാക്കുകൾ അക്കങ്ങൾനിറം നിറസംയോജനം ട്രേഡ്മാർക്സ് തുടങ്ങി ഉല്പന്നത്തിന്റെ ചിത്രീകരണത്തിൽ കാണപ്പെടുന്ന ഒന്നിലും റജിസ്ട്രേഷൻ മുൻനിർത്തി അവകാശവാദം ഉന്നയിക്കില്ല എന്ന ഒരു ഡിസ്ക്ലെയ്മറും ഉണ്ടായിരിക്കണം അതായത് ട്രേഡ്മാർക് സംബന്ധമായ കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുന്നില്ല എന്നർത്ഥം ഈ രണ്ട് ഡിസ്ക്ലെയ്മറുകളും ഒരു ഡിസൈൻ ഫയൽ ചെയ്യുമ്പോൾ ഉൾപെടുത്തേണ്ടതാണ് അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷ നൽകിയ വ്യക്തിക്ക് അല്ലെങ്കിൽ നിയമപരമായ പ്രതിനിധിക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു ഡിസൈനിനായി ഫയൽ ചെയ്യാം ഡിസൈനിനായി അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയെ അതിന്റെ ഉടമയായി പരിഗണിക്കും അപേക്ഷ പേറ്റന്റ് ഓഫീസിലെ ഡിസൈൻ വിങ്ങിലാണ് സമർപ്പിക്കുന്നത് പുതുമയും തനിമയുമാണ് ഡിസൈനിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായിരിക്കുന്നത് പുതുമ മുൻപ് പ്രസിദ്ധീകരിക്കാത്തത് മുൻപ് ഇല്ലാതിരുന്നത് എന്ന വസ്തുതയെ സൂചിപ്പിക്കുന്നു കോപ്പിറൈറ്റിന് ആവശ്യമായിരിക്കുന്ന ഒറിജിനാലിറ്റി പോലുള്ള ഒരു ആവശ്യകതയാണിത് അത് പൊതുസമൂഹത്തിന് വെളിപ്പെടുത്താൻ പാടില്ലാത്തതുമാണ് ഇത് വേർതിരിച്ചറിയാൻ കഴിയണം ഒരു ഉല്പന്നത്തിൽ നിന്ന് മറ്റൊനിന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാകണം ഇത് ഇത് ഒരു വസ്തുവിലാണ് പ്രയോഗിക്കപ്പെടേണ്ടത് കാരണം ഡിസൈനിനെ സ്വതവേ പരിരക്ഷിക്കാൻ കഴിയില്ല അത് ഒരു വസ്തുവിൽ സ്വയം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതിന് വിഷ്വൽ അപ്പീൽ ഉണ്ടായിരിക്കണം ഇതിന് അപവാദങ്ങൾ എന്തൊക്കെയാണ് പൊതു ക്രമത്തിനും ധാർമ്മികതയ്ക്കും വിരുദ്ധമായ ഡിസൈനുകൾ അനുവദിക്കാറില്ല പ്രത്യേകമായി നിർമ്മിക്കാനോ വിൽക്കാനോ കഴിയാത്ത സാമഗ്രികളും അപ്രകാരം തന്നെ ഉദാഹരണത്തിന് ഗ്രീറ്റിംഗ് കാർഡുകളും പോസ്റ്റ്കാർഡുകളും ഒരു ഡിസൈൻ റൈറ്റിന്റെ വിഷയമാകാറില്ല പകർപ്പവകാശമുള്ള കൃതികളും ഡിസൈനിംഗ് റൈറ്റിന്റെ പരിധിയിൽ വരുന്നില്ല അവ മറ്റൊരു രീതിയിൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇന്റഗ്രേറ്റഡ് സര്ക്യൂട്ട്സിന്റെ ലേഔട്ട് ഡിസൈനുകളും ഡിസൈൻ റൈറ്റിന്റെ അവകാശപരിധിയിൽ വരുന്നില്ല അത് വേറൊരു വ്യവസ്ഥിതിയുടെ കീഴിലാണ് വരുന്നത് കാർട്ടൂണുകൾ പകർപ്പവകാശനിയമത്താൽ പരിരക്ഷിക്കപെടുന്നു ഫ്ലാഗുകൾ മുദ്രകൾ ദേശീയ ചിഹ്നങ്ങൾ മുതലായവയും ഡിസൈൻ റൈറ്റിന്റെ പരിധിയിൽ വരുന്നവയല്ല ഒരു ഡിസൈൻ അനുവദിക്കുമ്പോൾ വിഷ്വൽ അപ്പീലിന് 10 വർഷത്തെ കാലാവധിയുണ്ട് കൂടാതെ 10 വർഷം കഴിഞ്ഞാൽ കാലാവധി 5 വർഷത്തേക്കുകൂടി പുതുക്കാൻ കഴിയും അതായത് മൊത്തം 15 വർഷത്തെ പരിരക്ഷ നൽകാം അതിനുശേഷം ഡിസൈൻ പൊതുസഞ്ചയത്തിൽ ഉൾപ്പെടുന്നു ഒരു ഡിസൈൻ ഉടമയ്ക്ക് ഒരു പ്രത്യേക അവകാശം വാഗ്ദാനം ചെയ്യുന്നു രൂപകൽപ്പനയിൽ ഉടമയ്ക്ക് ഒരു പകർപ്പവകാശമുണ്ട് അതിനർത്ഥം ഉടമയുടെ സമ്മതമില്ലാതെ അതിന്റെ പകർപ്പുകൾ നിർമ്മിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും എന്നാണ് ഡിസൈൻ വിൽക്കാനും വില്പനയ്ക്ക് ഓഫർ ചെയ്യാനും അതിനായി ചുമതലപ്പെടുത്താനും ലൈസൻസ് ചെയ്യാനും ഉടമയ്ക്ക് അവകാശമുണ്ട് ഒരു വ്യക്തി ഒരു ഡിസൈനിനായി ഫയൽ ചെയ്യുന്നതിനുമുമ്പ് നല്ലൊരു ഡിസൈനിയായി തിരച്ചിൽ നടത്താം പേറ്റന്റ് ഓഫീസിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് അവിടെ ഡിസൈൻ തിരയാൻ കഴിയും കൂടാതെ ഒരു അന്തർദ്ദേശീയ വർഗ്ഗീകരണവുമുണ്ട് ഇത് ലോകാർനോ കരാറിന് കീഴിൽ വികസിപ്പിച്ചെടുത്തതാണ് വ്യാപാരമുദ്രകൾക്കായുള്ള കരാർ പോലെ ഇത് ഡിസൈൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വിവിധ ക്ലാസുകളെ തരംതിരിക്കുന്നു 1 മുതൽ 31 വരെ ക്ലാസുകളും 99 താം ക്ലാസ്സും ഉണ്ട് ഉദാഹരണത്തിന് ക്ലാസ് 2 വസ്ത്രങ്ങളുടെ കാര്യവും 28 ാം ക്ലാസ് ഫാർമസ്യൂട്ടിക്കൽസ് സൌന്ദര്യവർദ്ധകവസ്തുക്കൾ തുടങ്ങിയവയെ കൈകാര്യം ചെയ്യുന്നു ഒരു ഡിസൈൻ നടപ്പിലാക്കുന്നത് ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ ഫയൽ ചെയ്യപ്പെടുന്ന ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഒരു ലംഘന സ്യൂട്ടിലുടെയാണ് ഒന്നുകിൽ അത് ഒരു വ്യക്തി ആ ഡിസൈൻ ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവായിരിക്കാം അല്ലെങ്കിൽ അത് നഷ്ടങ്ങൾ വീണ്ടുകിട്ടാനുള്ള നഷ്ടപരിഹാരമാകാം ഡിസൈൻ ആക്ട് ഡിസൈൻ ലംഘനത്തിന് നഷ്ടപരിഹാരത്തിനുള്ള പരിധി 50000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു രെജിസ്ട്രേഷന് ശേഷം ഒരു ഡിസൈന് തർക്കം ഉന്നയിക്കപ്പെടാം പേറ്റന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിസൈനുകളുടെ കാര്യത്തിൽ പ്രീഗ്രാന്റ് ചലഞ്ചില്ല മാത്രമല്ല ഇത് ഒരു ഡിസൈൻ റദ്ദാക്കുന്നതിന് കാരണമാകാം ആക്ടിന് കീഴിലുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കൽ ആവശ്യപ്പെടാം